ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ I അപ്പോൾ ഈ തത്വത്തിലേക്ക് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തട്ടെ ഞാൻ പൊട്ടൻഷ്യൽ എന്നറിയപ്പെടുന്ന പുതിയ തത്വത്തിലേക്കാണ് നോക്കുന്നത് നാം എലെക്ട്രോസ്റ്റാറ്റിക് സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതിനാൽ ഞാൻ എലെക്ട്രോസ്റ്റാറ്റിക് പൊട്ടെൻഷ്യലിനെപ്പറ്റി നോക്കുന്നു ഈ എലെക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ചിലപ്പോൾ ഫൈ എന്നോ മറ്റു ചിലപ്പോൾ വി എന്നോ സൂചിപ്പിക്കപ്പെടുന്നു ഞാൻ വി ഉപയോഗിക്കുന്നു ചിലപ്പോൾ എനിക്ക് ഫൈ ഉപയോഗിക്കേണ്ടി വന്നേക്കാം എന്താണ് ഉപയോഗിക്കുന്നത് എന്നത് പ്രശ്നമല്ല ഇവ രണ്ടും ഈ വിഷയത്തിൽ സാധാരണയായി ഉപയോഗിക്കപ്പെടുന്നു അപ്പോൾ എനിക്ക് എലെക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ നിർവചിക്ക ണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പോയിന്റ് ചാർജിനെക്കുറിച്ച് സംസാരിക്കാം ഈ പോയിന്റ് ചാർജിനെ സംബന്ധിച്ച് വൈദ്യുത ഫീൽഡ് എങ്ങിനെയാണ് കണക്കാക്കുന്നത് എന്ന് നമുക്കറിയാം ഒരു ഇലക്ട്രിക്ക് ഫീൽഡ് ഉണ്ട് ഞാൻ പ്രത്യേകിച്ച് താല്പര്യജനകമായ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഡിസ്ട്രിബ്യുഷൻ എടുക്കാം ശരി ഞാൻ പോയിന്റ് ചാർജ് എടുക്കാൻ ഉദ്ദേശ്ശിക്കുന്നില്ല ഇത് എങ്ങിനെയോ സൃഷ്ടിക്കപ്പെട്ട ഒരു ഇലക്ട്രിക്ക് ഫീൽഡ് ആണ് ഇത് ഹൊറിസോണ്ടൽ ദിശയിൽ പോകുന്നു കൂടാതെ ഇത് ഈ പ്രത്യേക ദിശയിൽ സമമായി വിന്യസിക്കപ്പെട്ടിരിക്കുന്നു അങ്ങിനെയുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡിനെ സംബന്ധിച്ച് ഇത് എങ്ങിനെയാണ് കിട്ടുന്നതെന്ന് നാം നേരത്തെ ചർച്ച ചെയ്തു നിങ്ങൾക്ക് ഒരു നീളമേറിയ രേഖ ചാർജ് ഉണ്ട് കൂടാതെ ഇതാണ് ഇത് സൃഷ്ടിക്കുന്ന ഇലക്ട്രിക്ക് ഫീൽഡ് ഇതിന്റെ അളവ് ക്രമേണ കുറഞ്ഞു വരുന്നു പക്ഷെ ഇവിടെ ഇതിന്റെ അളവ് സമമാണ് എന്ന് ഞാൻ അനുമാനിക്കുന്നു ഇപ്പോൾ ഇവിടെ രണ്ടു പോയിന്റുകൾ സങ്കൽപ്പിക്കുക ഒരു പോയിന്റ് r2 ഇവിടെ പോയിന്റ് r1 ഇപ്പോൾ ഞാൻ ഒരു ടെസ്റ്റ് ചാർജ് ഡെൽറ്റാക്യൂ എടുക്കുന്നു എന്ന് വിചാരിക്കുക ഞാൻ ടെസ്റ്റ് ചാർജ് ഡെൽറ്റാക്യൂ എടുത്ത് അതിനെ ആർ 2 ൽ നിന്നും ആർ 1 ലേക്ക് നീക്കുന്നു ഞാൻ ഈ ടെസ്റ്റ് ചാർജിനെ ഈ ചുവന്ന രേഖ വഴി ആർ 2 ൽ നിന്നും ആർ 1 ലേക്ക് നീക്കുന്നു ഓർമ്മിക്കുക എന്റെ ഇലക്ട്രിക് ഫീൽഡ് സമമാണ് അതിനർത്ഥം ഇതിന്റെ അളവ് മാറുന്നില്ല കൂടാതെ അതിന്റെ ദിശ എപ്പോഴും ഹൊറിസോണ്ടലായി വലത്തോട്ടാണ് അപ്പോൾ ഞാൻ ആർ 2 വിൽ നിന്നും ആർ 1 ലേക്ക് നീങ്ങുന്നു ഞാൻ ഈ ടെസ്റ്റ് ചാർജ് ആർ രണ്ടിൽ തന്നെ നിർത്തുന്നുവെങ്കിൽ ഈ ഇലക്ട്രിക്ക് ഫീൽഡ് വലത്തേക്ക് ദിശയിലായതിനാൽ ചാർജ് വലത്തേക്ക് ആക്സിലറേറ്റ് ചെയ്യപ്പെടുന്നു എന്തെന്നാൽ എനിക്ക് ടെസ്റ്റ് ചാർജ് ഡെൽറ്റാക്യൂ ഉണ്ടെങ്കിൽ അതിന്മേൽ ഒരു ഫോഴ്സ് ചെലുത്തപ്പെടുന്നു അത് E ഗുണം ഡെൽറ്റാക്യൂ ആണ് ശരിയല്ലേ ചാർജ് ഡെൽറ്റാക്യൂവിന്മേൽ ഫോഴ്സ് ചെലുത്തപ്പെടുകയും എനിക്ക് ചാർജിനെ ഒരു പോയിന്റിൽ നിന്നും മറ്റൊന്നിലേക്ക് നീക്കേണ്ടതായും ഉണ്ട് ഞാൻ ചെയ്യേണ്ടതെന്തെന്നാൽ എനിക്ക് അല്പം വർക്ക് ചെയ്യേണ്ടതായി വരുന്നു ഞാൻ വർക്ക് എങ്ങിനെയാണ് ചെയ്യുന്നത് ഞാൻ യഥാർത്ഥത്തിൽ ഫീൽഡിന് എതിരായി നീക്കേണ്ടിവരും ശരിയല്ലേ പോയിന്റ് ആർ 2 വിൽ നിന്നും ആർ 1 ലേക്ക് ഫീൽഡിന് എതിരായി ഫീൽഡ് വലത്തേക്ക് പോകുന്നു പക്ഷെ ഞാൻ ഇടത്തേക്ക് നീങ്ങാൻ ശ്രമിക്കുന്നു അപ്പോൾ എനിക്ക് അല്പം ശക്തി വികസിപ്പിക്കേണ്ടി വരും അപ്പോൾ ഈ ചാർജ് നീക്കുന്നതിനായി എനിക്ക് അല്പം വർക്ക് ചെയ്യേണ്ടി വരും എത്രമാത്രം വർക്കാണ് ചെയ്യേണ്ടി വരിക ചെയ്യുന്ന വർക്ക് ചെലുത്തുന്ന ഫോഴ്സ് ഗുണം നീങ്ങുന്ന അകലം എന്നതിന് തുല്യമായിരിക്കും അപ്പോൾ ഇത് ഒരു കട്ട നീക്കുന്നതിന് തുല്യമായ മെക്കാനിക്കൽ തത്വമാണ് അപ്പോൾ എനിക്ക് ഒരു കട്ടയുണ്ട് ഞാൻ ഇത് ഡി അകലത്തിൽ നീക്കുന്നു ഞാൻ ഫോഴ്സ് എഫ് പ്രയോഗിക്കുന്നു സ്പ്പോൾ ചെയ്യുന്ന വർക്ക് എന്നത് ഫോഴ്സ് ഗുണം അകലം ആയിരിക്കും ഞാൻ നെഗറ്റീവ് ചിഹ്നം ഇടുന്നു എന്തെന്നാൽ ഞാൻ ഫീൽഡിന് വിപരീതമായി പോകുന്നു ഞാൻ വർക്ക് ചെയ്യുന്നു എന്തെന്നാൽ എനിക്ക് ചാർജിനെ ആർ രണ്ടിൽ നിന്നും ആർ ഒന്നിലേക്ക് നീക്കേണ്ടതായുണ്ട് അപ്പോൾ ഞാൻ ഫീൾഡിന് എതിരായി വർക്ക് ചെയ്യുന്നു ഇത് ഫീൽഡിന് വിപരീത ദിശയിൽ ചെയ്യുന്ന ഒരു വർക്കാണ് ചെയ്യുന്ന വർക്ക് ഫോഴ്സ് ഗുണം അകലം ആണ് എന്താണ് ഫോഴ്സ് ം ഫോഴ്സ് ഈ ഡെൽറ്റാക്യൂ ആണ് അതായത് ടെസ്റ്റ് ചാർജ് ഗുണം ആ പ്രത്യേക പോയിന്റിലുള്ള ഇലക്ട്രിക്ക് ഫീൽഡ് ഗുണം അകലം ഞാൻ ആർ 2 ആർ 1 അകലം ഇവിടെ നീങ്ങി ഈ വഴി ഇപ്പോൾ ഞാൻ ഒരു യൂണിറ്റ് ചാർജ് നീങ്ങാൻ എനിക്ക് എത്ര വർക്ക് ചെയ്യണം എന്ന് നിർവചിക്കാം ഞാൻ ഇതിനെ പൊട്ടൻഷ്യൽ എന്ന് നിർവചിക്കുന്നു ആ പൊട്ടൻഷ്യൽ മൈനസ് ഈ ഗുണം ഡെൽറ്റ ആർ അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ എഴുതാം മൈനസ് ഈ ഗുണം ഡെൽറ്റ എക്സ് എന്തെന്നാൽ ഇതൊരു എക്സ് വൈ തലമാണ് അതിനാൽ രണ്ടിലൊന്ന് ഉപയോഗിക്കാം ഞാൻ മൈനസ് ഈ ഗുണം ഡെൽറ്റ ആർ ഉപയോഗിക്കുന്നു ഇതാണ് പൊട്ടൻഷ്യൽ ഇപ്പോൾ പൊട്ടൻഷ്യലിന്റെ പ്രാധാന്യം എന്താണ് നിങ്ങൾ നിങ്ങളുടെ മെക്കാനിക്സ് വിഷയം ഓർക്കുകയാണെങ്കിൽ അതിൽ പൊട്ടൻഷ്യൽ എന്നത് ഉദാഹരണത്തിന് ഒരു വസ്തു സമുദ്ര നിരപ്പിൽ കിടക്കുന്നു സമുദ്രനിരപ്പിനെ കേന്ദ്രമായി എടുത്താൽ ഒരു മലയുണ്ടെന്നു വിചാരിക്കുക കടലിനരികത്തായി കടലിലല്ല അതിന്നരികത്തായി ഈ വസ്തു മലമുകളിലാണ് അത് ആ ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്നു എന്ന വിചാരിക്കുക ഈ മലക്ക് നൂറ് അല്ലെങ്കിൽ ആയിരം മീറ്റർ സമുദ്ര നിരപ്പിൽ നിന്നും ഉണ്ട് അപ്പോൾ ഈ വസ്തു താഴേക്ക് വീഴുമ്പോൾ ആ വസ്തുവിനുള്ള എല്ലാ എനെർജിയും യഥാർത്ഥത്തിൽ താഴേക്ക് പതിക്കുമ്പോൾ കൈനറ്റിക് എനർജി ആയി മാറ്റപ്പെടുന്നു ആരെങ്കിലും അത് സമുദ്രനിരപ്പിൽ നിന്നും മലമുകളിലേക്ക് എത്തിച്ചിരിക്കണം അപ്പോൾ ആരെങ്കിലും വർക് ചെയ്തു ആരെങ്കിലും ചെയ്ത ആ വർക്ക് എത്രയായാലും അത് പൊട്ടൻഷ്യൽ എനർജി ആയി സംഭരിക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ നമുക്ക് പറയാം ആ മലമുകളുളിൽ ആയിരം പൊട്ടൻഷ്യൽ ഉണ്ട് അതിനർത്ഥം പൊട്ടൻഷ്യൽ എനർജി യുടെ ആയിരം യൂണിറ്റുകൾ ഒരാൾക്ക് ശേഖരിച്ച് കൈനറ്റിക് എനർജി ആയി മാറ്റാൻ നിങ്ങൾ ഈ വസ്തു താഴേക്ക് ഇട്ടപ്പോൾ സാധിച്ചു ഇതിനോട് വളരെ സാമ്യമുള്ളത് നിങ്ങൾ ഈ ചാർജ് എടുത്ത് ആർ 1 പോയിന്റിൽ വയ്ക്കുന്നു അപ്പോൾ നിങ്ങൾ ചാർജ് ഡെൽറ്റാക്യൂ ആർ രണ്ടിൽ നിന്നും ആർ ഒന്നിലേക്ക് നീക്കുന്നു ഇപ്പോൾ നിങ്ങൾ ചാർജ് വിടുകയാണെങ്കിൽ അത് സ്വയം നീങ്ങുന്നു എന്തെന്നാൽ അതിന്മേൽ അതിനെ തള്ളുന്ന ഒരു ഫോഴ്സ് ഉണ്ട് ചാർജ് നീങ്ങി ആക്സിലറേറ്റ് ചെയ്യപ്പെടുന്നു അവിടെ കൈനറ്റിക് എനർജി ഉണ്ട് സോറി ഈ എനർജി ഈ വസ്തു ആരോ നീക്കിയത് കാരണം ലഭിച്ച പൊട്ടൻഷ്യൽ എനെർജിയിൽ നിന്ന് വികസിച്ചതാണ് അപ്പോൾ ആരെങ്കിലും ഫീൽഡിന് എതിരായി നീങ്ങിയാൽ നാം ഈ വസ്തുവിന് എനർജി നൽകുന്നു ഈ വസ്തുവിൽ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി നമുക്ക് കൈനറ്റിക് എനർജി ആയി മാറ്റുവാൻ സാധിക്കും അപ്പോൾ ഇതാണ് പൊട്ടൻഷ്യൽ പൊട്ടെൻഷ്യൽ എന്നത് മൈനസ് ഈ ഗുണം ഡെൽറ്റ ആർ ഈ പൊട്ടൻഷ്യൽ ഫീൽഡിന് എതിരായി ചെയ്യുന്ന വർക്ക് ആണ് അത് മൈനസ് ചിഹ്നം കൊണ്ട് സൂചിപ്പിക്കുന്നു അപ്പോൾ ഇത് പ്രധാനമാണ് എന്തുകൊണ്ട് പ്രധാനമാണ് എന്നത് നമുക്ക് പിന്നീട് കാണാം ഇപ്പോൾ ഇവിടെ നിന്നാണ് ആ ന്യൂട്ടൺ പെർ കൂളംബ് അല്ലെങ്കിൽ വർക്ക് പെർ മീറ്റർ സംഗതി വരുന്നത് നിങ്ങൾക്ക് വർക്ക് ഭാഗം ഡെൽറ്റാക്യൂ ഉണ്ട് വർക്കിന്റെ യൂണിറ്റ് എന്താണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് വർക്ക് എന്നത് ഫോഴ്സ് ആണ് ഫോഴ്സ് എന്നത് വർക്ക് ചെയ്തത് ആണ് അത് ന്യൂട്ടൺസ് പെർ മീറ്റർ ആണ് ന്യൂട്ടൻ ഗുണം മീറ്റർ ആണ് ചെയ്ത വർക്ക് വർക്ക് പെർ ചാർജ് എന്നത് ന്യൂട്ടൻ പെർ കൂളംബ് ഗുണം മീറ്റർ ആണ് പക്ഷെ പ്റ്റൻഷ്യലിന്റെ കാര്യത്തിലും നാം അത് കണ്ടു ഇതാണ് പൊട്ടൻഷ്യലിനുള്ള വൈദ്യുത ഫീൽഡ് അപ്പോൾ പൊട്ടൻഷ്യൽ എന്നാൽ ഒരു ചാർജിന് ചെയ്ത വർക്ക് എന്ന് നാം കണ്ടു എസ ഐ യൂണിറ്റുകളിൽ ഇത് അളക്കുന്നത് വോൾട്ട് കൊണ്ടാണ് വർക്കിനെ അളക്കുന്നത് ജൂൾസ് കൊണ്ടാണ് ശരിയല്ലേ അപ്പോൾ എനിക്ക് പൊട്ടൻഷ്യൽ ഉണ്ട് ഇത് വോൾട്സ് ആണ് വർക്ക് എന്നത് ജൂൾസ് പേര് ചാർജ് ആണ് പക്ഷെ വർക്ക് ചെയ്തത് ഈ ഗുണം ഡെൽറ്റ ആർ ആണ് ഈ യുടെ യൂണിറ്റ് എന്താണെന്നാണ് നാം നോക്കുന്നത് ഡെൽറ്റ ആർ എന്നത് ഞാൻ അളക്കുന്ന അകലം ആണ് അതിനാൽ ഇത് മീറ്ററിൽ ആയിരിക്കണം അപ്പോൾ ഈ യുടെ യൂണിറ്റ് ജൂൾസ് പെർ കൂളംബ് ആകും ചാർജ് കൂളംബ് പെർ മീറ്റർ ആണ് എന്തായാലും പൊട്ടൻഷ്യൽ എന്നാൽ ചെയ്ത വർക്ക് പെർ ചാർജ് ആണ് എന്നും നാം കണ്ടു അപ്പോൾ വൈദ്യുത ഫീൽഡിന്റെ യൂണിറ്റുകൾ ജൂൾസ് പെർ കൂളംബ് ഗുണം മീറ്റർ ആണെന്ന് നമുക്ക് എഴുതാം പക്ഷെ പൊട്ടൻഷ്യൽ എന്നാൽ വർക്ക് പെർ കൂളംബ് ആണെന്നും നാം കണ്ടു ശരിയല്ലേ എലെക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്നത് ചെയ്ത വർക്ക് പെർ കൂളംബ് ആണ് ചെയ്ത വർക്ക് പെർ കൂളംബ് ജൂൾസ് പെർ കൂളംബ് തന്നെയാണ് അതിനാൽ എനിക്ക് ജൂൾസ് പെർ കൂളംബ് ന് പകരം വോൾട്സ് എഴുതാം അത് എനിക്ക് വൈദ്യുത ഫീൽഡ് ഈ വോൾട് പെർ മീറ്റർ യൂണിറ്റിൽ അളക്കാം അപ്പോൾ ഇങ്ങിനെയാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ യൂണിറ്റ് വോൾട്സ് പെർ മീറ്റർ ആകുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രത്യേക ഇടത്ത് ഒരു സമമായ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരുന്നു ഈ ഇലക്ട്രിക് ഫീൽഡ് ഒരു ചെറിയ അകലത്തിൽ എങ്കിലും മാറുന്നില്ല എന്ന് വിചാരിക്കുക ഈ ഇലക്ട്രിക് ഫീൽഡ് ഹൊറിസോണ്ടലായി വലത്തേക്ക് പോകുന്നു ഞാൻ ഇതിൽ രണ്ടു പോയിന്റുകൾ ആർ ഒന്നും ആർ രണ്ടും എടുക്കുന്നു അതിനുശേഷം ഒരു ചാർജ് അല്ലെങ്കിൽ ടെസ്റ്റ് ചാർജ് ആർ രണ്ടിൽ നിന്നും ആർ ഒന്നിലേക്ക് നീക്കുന്നതിന് എത്ര മാത്രം വർക്ക് വേണ്ടി വരും എന്ന് ഞാൻ നിർവചിക്കുകയോ കണ്ടുപിടിക്കുകയോ ചെയ്യാം ഈ ചലനം ഇലക്ട്രിക് ഫീൽഡിന് വിപരീതമായി ആണെന്ന് ദയവായി ശ്രദ്ധിക്കുക നാം ഇലക്ട്രിക് ഫീൽഡിന് വിപരീതമായി എന്നതിനെ കണക്കിലെടുത്ത് ചാർജിൽ ചെയ്ത വർക്കിന്റെ വാക്യം എഴുതുന്നു ചാർജിനു മുകളിൽ ചെയ്യുന്ന വർക്ക് എന്നത് നാം ചെലുത്തുന്ന ഫോഴ്സ് ഗുണം നമ്മ നീങ്ങുന്ന ദൂരം ആണ് ഞാൻ ഈ ദൂരത്തെ ഡെൽറ്റ ആർ എന്ന് വിളിച്ചാൽ ഈ ചിത്രത്തിൽ നിന്നും ഡെൽറ്റ ആർ ആർ രണ്ട മൈനസ് ആർ ഒന്ന് എന്ന കാണാൻ കഴിയും അപ്പോൾ ഞാൻ ഈ മാർഗ്ഗത്തിൽ ഡെൽറ്റ ആർ ദൂരം ഫീൽഡിന് എതിരായി നീങ്ങുമ്പോൾ ഞാൻ കുറച്ച് വർക്ക് ചെയ്യുന്നു പക്ഷെ ടെസ്റ്റ് ചാർജിൻമേലുള്ള ഫോഴ്സ് ആ പ്രത്യേക പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഉം നൽകുന്നു കൂടാതെ ആർ രണ്ടിൽ നിന്ന് ആർ ഒന്നിലേക്ക് നീങ്ങുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് സ്ഥിരമാണെന്ന് നാം അനുമാനിക്കുന്നു ഇതാണ് ചെയ്ത വർക്ക് എങ്കിലും നമുക്ക് യഥാർത്ഥത്തിൽ കൃത്യമായി ലഭിക്കുന്നത് ഇതല്ല നാം ഈ ടെസ്റ്റ് ചാർജ് ചെയ്ത വർക്കിനെ ഭാഗിച്ചാൽ അതായത് വർക് പെർ യൂണിറ്റ് ചാർജ് അല്ലെങ്കിൽ വർക്ക് പെർ ടെസ്റ്റ് ചാർജ് കണക്കാക്കിയാൽ അതെനിക്ക് നൽകുന്നത് പൊട്ടൻഷ്യൽ ആണ് ഇവിടെ നാം ഇതാണ് ചെയ്ത വർക്ക് എന്ന് കാണിച്ചാലും ഇത് ഡിഫറെൻഷ്യൽ വർക്ക് അതായത് നമുക്ക് ചാർജ് ആർ രണ്ടിൽ നിന്നും ആർ ഒന്നിലേക്ക് നീക്കുമ്പോൾ കൂടുതൽ ചെയ്യേണ്ടി വരുന്ന വർക്ക് എന്നാണ് നാം യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടത് ചാർജ് മറ്റേതെങ്കിലും പോയിന്റിൽ നിന്നും ആർ രണ്ടിലേക്ക് നീക്കിക്കഴിഞ്ഞു എന്ന് വിചാരിച്ചാൽ ചുരുക്കത്തിൽ നമുക്ക് ഈ സമവാക്യത്തിൽ നിന്നും കിട്ടുന്നത് മൊത്തം പൊട്ടൻഷ്യൽ അല്ല മറിച്ച് ആർ രണ്ടും ആർ ഒന്നും തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം ആണ് അപ്പോൾ ഏതെങ്കിലും 0 പെട്ടെൻഷ്യലിനെ അടിസ്ഥാനമാക്കി ഈ അളവ് ആർ രണ്ടും ആർ ഒന്നും തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസമാണ് നാം യഥാർത്ഥത്തിൽ എഴുതിയത് അപ്പോൾ നമുക്ക് ഡെൽറ്റ വി സമം മൈനസ് ഡെൽറ്റ ആർ എന്തെന്നാൽ നീക്കത്തിന്റെ ദിശ ഒരു പ്രത്യേക ആർ ദിശയാണ് കൂടാതെ ഇവിടത്തെ പൊട്ടൻഷ്യൽ വ്യത്യാസം എന്താണ് ഇത് പോയിന്റുകൾ ആർ ഒന്നും ആർ രണ്ടും തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം ആണ് ഇത് മൈനസ് ഈ ഡെൽറ്റ ആർ നു തുല്യമാണ് ഇപ്പോൾ ഞാൻ എല്ലായെപ്പോഴും ഇലക്ട്രിക് ഫീൽഡിന് സമാന്തരമായി നീങ്ങണം എന്ന ഒരു ആവശ്യമോ നിയമമോ ഇല്ല ചിലപ്പോൾ ഞാൻ ചാർജ് നീക്കാൻ തിരഞ്ഞെടുക്കുന്ന മാർഗ്ഗം ഫീൽഡിന് ഒരു കോണിൽ ആയിരിക്കാം ആ സാഹചര്യത്തിൽ എങ്ങിനെയാണ് ഈ നിർവചനം വ്യത്യാസപ്പെടുന്നത് ഇത് മെക്കാനിക്സിൽ നിന്ന് നിങ്ങൾക്കറിയാം ഞാൻ ഒരു വസ്തു വില ഒരു ഫോഴ്സ് ചെലുത്തുമ്പോൾ ആ ഫോഴ്സ് വസ്തുവിനെ നീക്കുന്നു ഫോഴ്സ് വസ്തു നീങ്ങുന്ന അതെ രേഖയിലാണെങ്കിൽ വസ്തുവിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ഏറ്റവും ഉയർന്നതായിരിക്കും അതെ സമയം ഞാൻ ഈ വസ്തുവിനെ ഈ ദിശയിൽ തള്ളുകയോ വലിക്കുകയോ ചെയ്താൽ ബലത്തിന്റെ ഉദാഹരണത്തിന് ഞാൻ ഇതിനെ ഈ ദിശയിൽ വലിക്കുകയാണെങ്കിൽ ഫോഴ്സ് മുഴുവനും വസ്തുവിൽ അനുഭവപ്പെടുകയില്ല വസ്തുവിൽ എത്രമാത്രം ഫോഴ്സ് അനുഭവപ്പെടും അല്ലെങ്കിൽ ഈ വസ്തു എത്ര മാത്രം വർക്ക് ചെയ്തിരിക്കും എന്നത് രണ്ടു വെക്റ്ററുകളുടെ ഡോട്ട് ഗണിതം കൊണ്ട് ലഭിക്കും അപ്പോൾ ഞാൻ ഇതിനെ ഡെൽറ്റ എക്സ് വെക്ടർ അല്ലെങ്കിൽ ഡെൽറ്റ എക്സ് ഗുണം എക്സ് ഹാറ്റ് ഞാൻ നീങ്ങുന്ന ദിശയിലുള്ള വെക്ടർ എലമെന്റ് അപ്പോൾ ചെയ്ത വർക്കിന്റെ അളവ് യഥാർത്ഥത്തിൽ വെക്ടർ എഫ് ഉം ഡിസ്പ്ലേസ്മെന്റ് വെക്റ്ററും തമ്മിലുള്ള ഡോട്ട് ഗണിതം ആയിരിക്കും അപ്പോൾ ചെയ്ത വർക്കിന്റെ അളവ് എഫ് ഡോട്ട് ഡെൽറ്റ എക്സ് നാം ഡെൽറ്റ എക്സ് 0 ആകാൻ അനുവദിച്ചാൽ ഈ ലിമിറ്റിങ് പ്രക്രിയയിൽ ഡെൽറ്റ എക്സ് 0 ത്തിലേക്ക് പോകുമ്പോൾ ഡിഎക്സ് ആകുന്നു അപ്പോൾ ചെയ്ത വർക്ക് അല്ലെങ്കിൽ ഡിഫറെൻഷ്യൽ വർക്കിന്റെ അളവ് എഫ് ഡിഎക്സ് സോറി എഫ് ഡോട്ട് അവിടെ ഒരു എക്സ് ഹാറ്റ് ഉണ്ട് അതിനാൽ ഡി എക്സ് എക്സ് ഹാറ്റ് അപ്പോൾ ഇതാണ് ചെയ്ത വർക്കിന്റെ അളവ് അപ്പോൾ ഇതേ മാതൃകയിൽ വൈദ്യുത ഫീൽഡിന്റെ കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് രണ്ടു പോയിന്റുകൾ തമ്മിലുള്ള വോൾട്ടേജ് വ്യത്യാസം അല്ലെങ്കിൽ ഡിഫറെൻഷ്യൽ വോൾട്ടേജ് എഴുതാം ഞാൻ ഡി എക്സ് ദിശയിൽ ഒരു ദൂരം നീങ്ങുന്നുവെങ്കിൽ അത് മൈനസ് ഈ ഡോട്ട് ഡിഎൽ ആയിരിക്കും എന്താണ് ഡിഎൽ നിങ്ങൾ നാം നേരത്തെ സംസാരിച്ച കോ ഓർഡിനേറ്റ് സിസ്റ്റത്തെപ്പറ്റി ഓർക്കുന്നുണ്ടെങ്കിൽ ഡിഎൽ എന്നത് രേഖ എലമെന്റ് ആണ് ഇത് നീക്കത്തിന്റെ ദിശ സൂചിപ്പിക്കുന്ന വെക്ടർ എലമെന്റ് ആണ് അപ്പോൾ ഞാൻ ഏതെങ്കിലും മാർഗ്ഗത്തിൽ നീങ്ങുകയാണെങ്കിൽ ഈ നീക്കത്തെ ഒരു രേഖ എലമെന്റ് കൊണ്ട് അതായത് ഡിഎൽ എന്ന ഒരു വെക്ടർ രേഖ ഖണ്ഡം കൊണ്ട് സൂചിപ്പിക്കാം ഓക്കേ ഇപ്പോൾ ബി എന്നും എ എന്നും രണ്ടു പോയിന്റുകൾ എടുത്താൽ ഞാൻ ചാർജ് ബി യിൽ നിന്നും മറ്റൊരു പോയിന്റ് എ യിലേക്ക് നീക്കുന്നു അപ്പോൾ ഞാനിവിടെ ഒരു പ്രത്യേക മാർഗ്ഗം എടുക്കുന്നു ഈ മാർഗ്ഗം രണ്ടു പോയിന്റുകളുടെയും ഇടയിലുള്ള മൊത്തം പൊട്ടൻഷ്യൽ വ്യത്യാസം അല്ലെങ്കിൽ എ യുടെയും ബി യുടെയും ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം ഈ വാക്യം ഡിവി സമം മൈനസ് ഈ ഡോട്ട് ഡിഎൽ ഈ മാർഗ്ഗത്തിൽക്കൂടി ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിലൂടെ ലഭിക്കും അപ്പോൾ ഈ മാർഗ്ഗത്തിന് സി എന്ന് പേര് നൽകിയാൽ രണ്ടു പോയിന്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം എ യിലെ വി മൈനസ് ബി യിലെ വി ഈ പൊട്ടൻഷ്യൽ വ്യത്യാസം എന്നത് ബി മുതൽ എ വരെയുള്ള ഇന്റഗ്രൽ ഈ ഡോട്ട് ഡിഎൽ എന്താണ് ഇ എന്താണ് ഡിഎൽ ഡി എൽ എന്നത് വെക്ടർ എലമെന്റ് ഇവിടത്തെ രേഖ എലമെന്റ് അപ്പോൾ വൈദ്യുത ഫീൽഡ് എന്നത് ഇവിടത്തെ പ്രത്യേക പ്രദേശത്തെ ഇലക്ട്രിക് ഫീൽഡാണ് ഇതിലൂടെയാണ് നാം ചാർജ് നീക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വാക്യമാണ് രണ്ടു പോയിന്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം നൽകുന്നത് പ്രത്യേക ദിശയിലുള്ള വെക്ടർ അളവായ ഒരു ഇലക്ട്രിക് ഫീൽഡിന്റെ ലൈൻ ഇന്റഗ്രൽ ആണ് അപ്പോൾ ശ്രദ്ധിക്കുക ഇലക്ട്രിക് ഫീൽഡും രേഖ ഖണ്ഡവും രണ്ടും വെക്ടർ അളവുകളാണ് അപ്പോൾ നിങ്ങൾക്ക് നീക്കത്തിന്റെ ദിശയും ഇലക്ട്രിക് ഫീൽഡിന്റെ ഓരോ പോയിന്റിലും ഉള്ള അളവും നിങ്ങൾ നീങ്ങുന്ന മാർഗ്ഗത്തിൽ വ്യക്തമാക്കേണ്ടാതായുണ്ട് ഓക്കേ ഇപ്പോൾ ചില ലവളരെ ലഘുവായ പരിണാമങ്ങൾ നമുക്ക് കണ്ടു പിടിക്കാൻ സാധിക്കും ഇവിടെ സംഭവിച്ച ഒരു കാര്യം ഇടതു വശം യഥാർത്ഥത്തിൽ ഒരു സ്കാലാർ ആണ് ഈ എലെക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിന് നാം ഈ ലൈൻ ഇന്റഗ്രൽ അല്ലെങ്കിൽ പാത്ത് ഇന്റഗ്രൽ പൂർണമായി ഈ മാർഗ്ഗത്തെ അപേക്ഷിച്ച് സ്വതന്ത്രമാണ് എന്ന് നാം പരിഗണിക്കുന്നു ഇത് അതിന്റെ തുടക്കത്തിലെയും അവസാനത്തെയും പോയിന്റുകളെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു ഉദാഹരണത്തിന് ഞാൻ പോയിന്റ് ബിയിൽ നിന്നും എ യിലേക്ക് ഒരു പാത്ത് എടുത്താൽ ഞാൻ നേരെ ഈ പാതയിൽക്കൂടി പോകുകയാണെങ്കിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം ഏതെങ്കിലും ഡെൽറ്റ വി ആയിരിക്കുംഈ ഡെൽറ്റ വി വി എ മൈനസ് വി ബി ആയിരിക്കും അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടുവാൻ പോകുന്ന പൊട്ടൻഷ്യൽ നിങ്ങൾ പാത്ത് ഒന്ന് ബി യിൽ നിന്ന് എ യിലേക്ക് ഒരു നേർ രേഖ പാതയിൽ കൂടി പോകുന്നു എങ്കിൽ നിങ്ങൾബിയിൽ നിന്ന് എ യിലേക്ക് നേരെ പോകുന്നില്ല എന്ന വിചാരിക്കുക നിങ്ങൾ ബി യിൽ നിന്ന് വേറെ ഏതെങ്കിലും ഒരു പോയിന്റ് സി യിലേക്ക് പോകുന്നു സി യിൽ നിന്ന് എ യിലേക്ക് പോകുന്നു നിങ്ങൾ ഇപ്പോഴും ഒരേ അവസാന പോയിന്റിലേക്ക് തന്നെയാണ് പോകുന്നത് പക്ഷെ വേറൊരു പാത്ത് തിരഞ്ഞെടുക്കുന്നു ഇതിനെ നമുക്ക് പാത്ത് രണ്ട് എന്ന് വിളിക്കാം നാം പരിഗണിക്കുന്ന എലെക്ട്രോസ്റ്റാറ്റിക് ഫീല്ഡിനെ സംബന്ധിച്ച് ഈ ലൈൻ ഇന്റഗ്രൽ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം നാം തിരഞ്ഞെടുക്കുന്ന പാതയെ അപേക്ഷിച്ചല്ല ഇരിക്കുന്നത് എന്ന് തെളിയിക്കാൻ സാധിക്കും ആദ്യത്തെയും അവസാനത്തെയും പോയിന്റുകൾ സമമായ എല്ലാ പാതകളും ഒരേ പൊട്ടൻഷ്യൽ വ്യത്യാസത്തിലേക്ക് നയിക്കും അപ്പോൾ ഡെൽറ്റ വി പാതയെ അപേക്ഷിച്ച് സ്വതന്ത്രമാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ് നമുക്കിത് അടയാളപ്പെടുത്താം ഡെൽറ്റ വി പാതയ്ക്ക് വിധേയമല്ല അത് ആഗ്രബിന്ദുക്കളെ ആശ്രയിച്ച് മാത്രം ഇരിക്കുന്നു നിങ്ങൾക്ക് ഏതു പാതയും തിരഞ്ഞെടുക്കാം ഇത് അഗ്രബിന്ദുക്കളെ ആശ്രയിച്ച് മാത്രം ഇരിക്കുന്നു ഇപ്പോൾ ഈ പ്രത്യേക നിരീക്ഷണത്തിനുള്ള സാധ്യമായ ഒരു വിശദീകരണം പോയിന്റ് ചാർജ് ഫീൽഡുകളെ പരിശോധിച്ചാൽ ലഭിക്കും അപ്പോൾ ഇവയാണ് എനിക്കുള്ള പോയിന്റ് ചാർജ് ഫീൽഡുകൾ ഇപ്പോൾ ഞാൻ ഈ പ്രത്യേക പാതയിലൂടെ ഈ പോയിന്റിൽ നിന്നും പോകുവാൻ നോക്കുന്നു ഈ പോയിന്റിനെ ആർ രണ്ട് എന്നും ഇതിനെ ആർ ഒന്ന് എന്നും നമുക്ക് വിളിക്കാം ഞാനീ നേർപാത്ത് എടുക്കുന്നു ഇവിടെ ഈ വൈദ്യുത ഫീൽഡ് ഈ റേഡിയൽ ദിശയിലാണ് ഇതിനർത്ഥം ഈ പാതയിൽ വൈദ്യുത ഫീൽഡ് ഈ രേഖാഖണ്ഡത്തിന്റെ ദിശക്ക് എതിരായിരിക്കും പക്ഷെ പ്രധാനമായി അവ തമ്മിൽ സമാന്തരമായിരിക്കും സമാന്തരം പക്ഷെ എതിർ ദിശയിൽ അപ്പോൾ അവിടെ കുറച്ച് പൊട്ടൻഷ്യൽ ഉയർച്ച അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം നിങ്ങൾ ആർ രണ്ടിൽ നിന്നും ആർ ഒന്നിലേക്ക് നീങ്ങുമ്പോൾ സംഭവിക്കും അപ്പോൾ നിങ്ങൾ പാത്ത് ഒന്ന് എടുത്താൽ നിങ്ങൾ ഇലക്ട്രിക് ഫീൽഡിന് സമാന്തരമായാണ് നീങ്ങുന്നത് എന്തെന്നാൽ ഇലക്ട്രിക് ഫീൽഡ് അതെ രേഖയിൽ പക്ഷെ വിപരീത ദിശയിലാണ് അപ്പോൾ നിങ്ങൾ ആർ രണ്ടിൽ നിന്നും ആർ ഒന്നിലേക്ക് ഫീൽഡിന് എതിരായി നീങ്ങുമ്പോൾ കുറച്ച് പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടാകും ഇപ്പോൾ ഇത് എക്സ് വൈ തലമാണ് എന്തെന്നാൽ ഞാൻ ഒരു പ്രത്യേക തലത്തിലേക്കാണ് നോക്കുന്നത് ഫീൽഡുകൾ ഈ പ്രത്യേക തലത്തിലാണ് നമുക്ക് പിന്നീട് മറ്റൊരു വ്യത്യസ്തമായ കോ ഓർഡിനേറ്റ് സിസ്റ്റത്തെ പറ്റി സംസാരിക്കാം ഇതിൽ പോയിന്റ് ചാർജ്ന്റെ ഇലക്ട്രിക് ഫീൽഡ് ഉചിതമായി നൽകിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഒരു വ്യത്യസ്ത പാത്ത് എടുക്കുന്നു ഞാൻ ഈ രേഖക്ക് ഹൊറിസോണ്ടലായി ആർ രണ്ടിൽ നിന്നും ആർ മുന്നിലേക്ക് പോകുന്നു എന്ന് പറയാം പിന്നീട് അവിടെ നിന്ന് വീണ്ടും ആർ ഒന്നിലേക്ക് പോകുന്നു അപ്പോൾ ഞാൻ ആർ മൂന്നിൽ നിന്നും ഇതിനു ഹൊറിസോണ്ടലായി ആർ മൂന്ന് നമ്മെ ഇങ്ങനെ ചെയ്യാൻ അനുവദിക്കുന്നില്ല നമുക്ക് വീണ്ടും ആർ മൂന്നിൽ നിന്നും ആർ നാലിലേക്കും പിന്നീട് അവിടെ നിന്നും ആർ ഒന്നിലേക്കും തിരിച്ചു പോകാം അപ്പോൾ ഈ നീണ്ട വളഞ്ഞ വഴി ആർ രണ്ടിൽ നിന്ന് ആർ മുന്നിലേക്ക്ആർ മൂന്നിൽ നിന്നും ആർ നാലിലേക്ക് ആർ നാലിൽ നിന്ന് ആർ ഒന്നിലേക്ക് ദിശയും വളരെ പ്രധാനമാണ് എന്ന കാര്യം ശ്രദ്ധിക്കുക ആർ രണ്ടിൽ നിന്നും ആർ മുന്നിലേക്ക് പിന്നീട് ആർ മൂന്നിൽ നിന്നും ആർ നാലിൽ നിന്നും ആർ മൂന്നിലേക്ക് എന്നെനിക്ക് പറയാൻ സാധിക്കുകയില്ല കാരണം അതിന് അർത്ഥമില്ല അപ്പോൾ നാം വരയ്ക്കുന്ന ഈ പാതകളെല്ലാം ഡൈറക്ഷനൽ പാത്ത് അതായത് ഈ പാതയ്ക്ക് ഒരു ദിശയുണ്ട് നമുക്ക് ദിശയുടെ കാര്യം പിന്നീട് നോക്കാം ഇപ്പോൾ നിങ്ങൾക്ക് ആർ രണ്ടിൽ നിന്നും ആർ മൂന്നിലേക്കുള്ള നീക്കം നോക്കാം ഇപ്പോൾ എന്താണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ദിശ നിങ്ങൾ ഇത് വഴി നീങ്ങുന്നു എന്ന് വിചാരിച്ചാൽ എന്തായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് അത് സോറി ഒരു നിമിഷം നമുക്ക് പോയിന്റ് ചാർജ് പരിഗണിക്കേണ്ട നമുക്ക് സമമായ ഇലക്ട്രിക് ഫീൽഡ് പരിഗണിക്കാം എന്തെന്നാൽ പോയിന്റ് ചാർജിനെ സംബന്ധിച്ച് ഞാൻ തിരഞ്ഞെടുത്ത പാത്ത് തികച്ചും ശരിയല്ല അതിനാൽ നമുക്ക് കുറച്ച് സമയത്തിന് ശേഷം പോയിന്റ് ചാർജിലേക്ക് തിരികെ വരാം നമുക്ക് സമമായ ഇലക്ട്രിക് ഫീൽഡിലേക്ക് തിരിച്ചു പോകാം അപ്പോൾ എനിക്ക് ഹൊറിസോണ്ടലായി വലത്തേക്ക് പോകുന്ന സമമായ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് നാം ഇത് വരെ പരിഗണിച്ചത് പോലെ ഇപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡിൽ ഞാൻ ആർ രണ്ടിൽ നിന്നും ആർ ഒന്നിലേക്ക് ആർ രണ്ട് മുതൽ ആർ മൂന്ന് ആർ നാലു മുതൽ ആർ ഒന്ന് വരെ യുള്ള പാത്ത് എടുക്കുന്നു അപ്പോൾ ഞാൻ ആർ രണ്ടു മുതൽ ആർ മൂന്നു വരെ ആർ മൂന്നു മുതൽ ആർ നാലു വരെ ആർ നാലു മുതൽ ആർ ഒന്ന് വരെ നീങ്ങുന്നു ഞാൻ ആർ രണ്ടു മുതൽ ആർ മൂന്നു വരെ നീങ്ങുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും എന്റെ നീക്കത്തിന്റെ ദിശക്ക് ഹൊറിസോണ്ടലാണ് ശരിയല്ലേ അപ്പോൾ ഞാൻ കുത്തനെ താഴേക്ക് ആർ രണ്ടിൽ നിന്നും ആർ മുന്നിലേക്ക് നീങ്ങുന്നു പക്ഷെ ഇലക്ട്രിക് ഫീൽഡ് ഹൊറിസോണ്ടലായി വലത്തേക്കാണ് ഇപ്പോൾ നിങ്ങൾ ബലത്തിന്റെയും വസ്തുവിന്റെയും മാതൃക ഓർക്കുമെങ്കിൽ ഞാൻ വസ്തുവിന് ഹൊറിസോണ്ടലായി ഫോഴ്സ് പ്രയോഗിക്കുമെങ്കിൽ അത് ചലിക്കുകയില്ല വർക്ക് നടക്കുന്നില്ല എനർജി കൂടുന്നു എങ്കിലും വർക്ക് നടക്കുന്നില്ല എന്തെന്നാൽ വസ്തു ചലിക്കുന്നില്ല ഇവിടെ ഇതേ മാതൃക സ്വീകരിച്ചാൽ എനിക്ക് പോയിന്റ് ചാർജ് ഇലക്ട്രിക് ഫീൽഡിന് ഹൊറിസോണ്ടലായി നീക്കാം പക്ഷെ ഞാൻ വർക്ക് ചെയ്യുന്നില്ല ഇപ്പോൾ ഞാൻ ആർ രണ്ടിൽ നിന്നും ആർ മുന്നിലേക്ക് വർക്ക് ചെയ്യാതെ നീങ്ങിയാൽ ഞാൻ ഇപ്പോൾ ആർ മുന്നിൽ നിന്ന്നും ആർ നാലിലേക്ക് നീങ്ങാൻ പോകുന്നു ഞാൻ ആർ മൂന്നിൽ നിന്നും ആർ നാലിലേക്ക് നീങ്ങുമ്പോൾ ഞാൻ ഫീൾഡിന് എതിരായി കുറച്ച് വർക്ക് ചെയ്യുന്നു ഇതിന്റെ അളവ് കൃത്യമായി ആർ രണ്ടിൽ നിന്നും ആർ ഒന്നിലേക്കുള്ളതിന് തുല്യമാണ് ഇത് ദിശക്ക് സമാന്തരമാകയാൽ ഇതിന് അതെ ദൂരവും ഇലക്ട്രിക് ഫീൽഡിന് അതെ അളവും ഈ പാതയിൽ ആർ മൂന്നു മുതൽ ആർ നാലു വരെയും ആർ രണ്ടു മുതൽ ആർ ഒന്ന് വരെയും ഉണ്ടാകും ഈ ചെയ്ത വർക്ക് മൂലം അല്ലെങ്കിൽ ഞാൻ ശേഖരിച്ച പൊട്ടൻഷ്യൽ വ്യത്യാസം മൂലം അല്ലെങ്കിൽ നാം കണ്ട പൊട്ടൻഷ്യൽ ഉയർച്ച ആർ രണ്ടിൽ നിന്നും ആർ ഒന്നിലേക്കുള്ളതിന് തുല്യമായിരിക്കും വീണ്ടും ഞാൻ ആർ നാലിൽ നിന്നും ആർ ഒന്നിലേക്ക് നീങ്ങുമ്പോൾ ചാർജ് ഇലക്ട്രിക് ഫീൾഡിന് ഹൊറിസോണ്ടലായി നീങ്ങുന്നതിനാൽ വർക്ക് ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ ഇത് ഇതിനെ സംബന്ധിച്ച് സ്വീകാര്യമായ ഒരു വിശദീകരണം ആണ് ഇത് എലെക്ട്രോസ്റ്റാറ്റിക് സംവിധാനത്തിന്റെ കാര്യത്തിലും ശരിയാണെന്ന് നിങ്ങൾക്ക് ഗണിത പരമായി കാണിക്കാൻ സാധിക്കും അപ്പോൾ എലെക്ട്രോസ്റ്റാറ്റിക് ഫീൽഡുകൾക്കും പൊട്ടെൻഷ്യൽ വ്യത്യാസം പാതയെ ആശ്രയിക്കുന്നില്ല മറിച്ച് ആദ്യത്തെയും അവസാനത്തെയും പോയിന്റുകളെ ആശ്രയിച്ചാണ് എന്ന സവിശേഷത ഉണ്ട് ഇപ്പോൾ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം പെട്ടെന്ന് നമുക്ക് നടത്താം ഇത് വളരെ പ്രധാനമായതിനാൽ ഞാൻ ഇതിൽ രണ്ടു നക്ഷത്രങ്ങൾ അടയാളപ്പെടുത്തുന്നു നേരത്തേയുള്ളത് ഒരു നക്ഷത്രം ഉള്ള നിരീക്ഷണമായിരുന്നു പക്ഷെ ഇത് രണ്ടു നക്ഷത്രമുള്ളതാണ് നിരീക്ഷണം ഇതാണ് നിങ്ങൾ ആർ രണ്ടിൽ നിന്നും ആർ മുന്നിലേക്ക് പോകുമ്പോൾ വർക്ക് ഒന്നും കിട്ടുന്നില്ല ആർ മൂന്നു മുതൽ ആർ നാലു വരെ കുറച്ച് വർക്ക് ചെയ്തു പക്ഷെ നിങ്ങൾ ആരോന്നിൽ നിന്നും ആർ രണ്ടിലേക്ക് പോയാൽ എന്ത് സംഭവിക്കും ഇത് നിങ്ങൾ ഒരു വസ്തുവിന്റെയോ ആളെയോ സമുദ്രനിരപ്പിൽ നിന്നും മലമുകളിലേക്ക് കൊണ്ടുപോയി വിടുന്നത് പോലെയാണ് നിങ്ങൾ ഭൂമിയുടെ ഗുരുത്വാകര്ഷണ മണ്ഡലത്തിന് എതിരായി വർക്ക് ചെയ്യുന്നു ഭൂമിയുടെ ഗുരുത്വാകർഷണം ഇയാളെ താഴേക്ക് വലിക്കുന്നു പക്ഷെ നിങ്ങൾ ഇയാളെ മുകളിലേക്ക് കൊണ്ടുപോയിക്കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ ആ വർക്ക് വികസിപ്പിച്ചു അത് പോലെയാണ് നാം ആർ മൂന്നു മുതൽ ആർ നാലു വരെ നീക്കിയപ്പോൾ ചാർജിന് മേൽ നാം ചെയ്ത വർക്ക് നിങ്ങൾക്ക് ഒരു ഹൊറിസോണ്ടൽ സ്കെയിലിൽ നീങ്ങാം പക്ഷെ പൊട്ടൻഷ്യൽ എനെർജിക്ക് മാറ്റമില്ല അപ്പോൾ മലമുകളിൽ നിങ്ങൾ ഹൊറിസോണ്ടലായി നീങ്ങിയാൽ സമുദ്രനിരപ്പിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പൊട്ടെൻഷ്യൽ എനർജി മാറുന്നില്ല എന്നിരുന്നാലും നിങ്ങൾ സങ്കൽപ്പിക്കുക ഇയ്യാളെ മലയുടെ അരികിലേക്ക് കൊണ്ട് പോയി താഴേക്ക് വിട്ടാൽ എന്താണ് സംഭവിക്കുക ആ ആളിന് നാം നമുദ്രനിരപ്പിൽ നിന്നും ഉയർത്തിക്കൊണ്ടു വന്ന് മലമുകളിൽ എത്തിക്കാൻ വേണ്ടി നൽകിയ എല്ലാ പൊട്ടൻഷ്യൽ എനർജിയും ഇപ്പോൾ കൈനറ്റിക് എനർജി ആയി മാറ്റപ്പെടുകയോ തിരികെ നല്കപ്പെടുകയോ ചെയ്യും ഈ ആൾക്ക് ത്വരണം സംഭവിക്കുകയും എല്ലാ പൊട്ടൻഷ്യൽ എനർജിയും നഷ്ടമായി കൈനറ്റിക് എനർജി ആയി മാറുകയും ചെയ്യും അതെ രീതിയിൽ ഞാൻ ആർ മൂന്നിൽ നിന്നും ആർ നാലിലേക്ക് നീങ്ങുമ്പോൾ ഞാൻ ഫീൽഡിന് വിപരീതമായി കുറച്ച് വർക്ക് ചെയ്തു അപ്പോൾ അവിടെ കുറച്ച് പൊട്ടൻഷ്യൽ എനർജി ഇപ്പോൾ ചാർജിൽ ഉണ്ട് ചാർജ് ആർ ഒന്നിൽ നിന്നും ആർ രണ്ടിലേക്ക് നീങ്ങുമ്പോൾ ഫീൽഡ് ഈ നീക്കത്തെ സഹായിക്കുന്നു ഫീൽഡിന് വിപരീതമായാണ് നീങ്ങുന്നത് ഇപ്പോൾ നിങ്ങൾ ചെയ്ത ആർ മുന്നിൽ നിന്ന് നാലിലേക്ക് ചെയ്ത വർക്കിന് ഒരു മൈനസ് അടയാളം നൽകിയാൽ സോറി ഫീൽഡിന് എതിരായി ആർ മുന്നിൽ നിന്ന് നാലിലേക്ക് നീങ്ങുക കാരണം ചെയ്ത വർക്കിന് പ്ലസ് അടയാളം നൽകിയാൽ നിങ്ങൾക്ക് അതെ അളവ് വർക്ക് കിട്ടും നിങ്ങൾ ആർ ഒന്നിൽ നിന്ന് ആർ രണ്ടിലേക്ക് നീങ്ങുമ്പോൾ ഈ പൊട്ടൻഷ്യൽ എനർജി തിരികെ എടുക്കാം അപ്പോൾ ആർ മൂന്നു മുതൽ ആർ നാലു വരെ ചെയ്ത വർക്ക് ആർ ഒന്ന് മുതൽ ആർ രണ്ടു വരെ ചെയ്ത വർക്കിന് തികച്ചും സമമായിരിക്കും അപ്പോൾ നാം ഈ പൂർണമായും അടഞ്ഞ പാതയിൽ നീക്കം പൂർത്തിയാക്കിയാൽ നാം അതെ പോയിന്റിൽ തിരികെയെത്തും ശരി അപ്പോൾ നാം ആർ രണ്ടിൽ നിന്നും ആരംഭിച്ചു ടൌൺ വഴി ചുറ്റി ആർ രണ്ടിൽത്തന്നെ തിരികെയെത്തി അപ്പോൾ ഈ പ്രത്യേക സാഹചര്യത്തിൽ നാം തിരികെയെത്തിയപ്പോൾ ആകെ വർക്ക് ചെയ്തത് പൂജ്യമാണെന്ന് നാം നിരീക്ഷിക്കുന്നു പൊട്ടെൻഷ്യലിന്റെ അടിസ്ഥാനത്തിൽ ഇത് എന്താണ് സൂചിപ്പിക്കുന്നത് ഇത് ലളിതമായി സൂചിപ്പിക്കുന്നതെന്തെന്നാൽ ഒരേ പോയിന്റിനെ അടിസ്ഥാനപ്പെടുത്തി പൊട്ടെൻഷ്യൽ പൂജ്യമായിരിക്കും പക്ഷെ നിർണായകമായി ഈ വാക്യങ്ങൾക്ക് വലതു വശം ഉണ്ട് ആ ലൈൻ ഇന്റഗ്രൽ ഇപ്പോൾ പൂജ്യം ആകും അപ്പോൾ നിങ്ങൾ കാണിക്കുന്നതെന്തെന്നാൽ ഒരു അടഞ്ഞ പാതയിയിൽ ലൈൻ ഇന്റഗ്രൽ എടുത്താൽ നിങ്ങൾക്ക് ഈ പാതയിൽ ഈ ഡോട്ട് ഡി എൽ ഉണ്ടെങ്കിൽ ഇത് പൂജ്യമായിരിക്കും ഇത് വളരെ പ്രധാനമാണ് ഈ മാനദണ്ഡം പാലിക്കുന്ന ഏതൊരു ഫീല്ഡിനെയും കോൺസെർവേറ്റീവ് ഫീൽഡ് അല്ലെങ്കിൽ ലാമെല്ലാർ ഫീൽഡ് എന്ന് വിളിക്കുന്നു കോൺസെർവേറ്റീവ് എന്നാണ് ഞാൻ ഉപയോഗിക്കുക എന്തെന്നാൽ ലാമെല്ലാർ എല്ലാം ഫ്ളൂ യിഡ് മെക്കാനിക്സ് ആണ് അപ്പോൾ നമുക്ക് ഈ ക്ലോസ്ഡ് പാത്ത് ഇന്റഗ്രൽ എല്ലായെപ്പോഴും പൂജ്യം ആകുന്ന സവിശേഷതയുള്ള കോൺസെർവേറ്റീവ് ഫീൽഡുകൾ ഉണ്ട് അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് ലഭിക്കുന്നതെന്താണ് നമുക്ക് പൊട്ടെൻഷ്യലിനെ ടെസ്റ്റ് ചാർജ് നീങ്ങുന്നത് മൂലം ചെയ്ത വർക്ക് ഉപയോഗിച്ച് നിർവചിക്കാം നിങ്ങൾക്ക് നീങ്ങുന്നതിനായി ഏതെങ്കിലും പാത്ത് തിരഞ്ഞെടുക്കാം പക്ഷെ ചെയ്ത വർക്ക് പെർ ചാർജ് അതായത് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം പറയുകയാണെങ്കിൽ തിരഞ്ഞെടുത്ത പാത്തിനേ അപേക്ഷിച്ച് സ്വതന്ത്രമായിരിക്കും പക്ഷെ ഇത് അവസാനത്തെ മാത്രം ആശ്രയിച്ചിരിക്കും ആദ്യത്തെയും അവസാനത്തെയും പോയിന്റുകൾ അല്ലെങ്കിൽ പാത്തിന്റെ അഗ്ര പോയിന്റുകൾ മൂന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ നിരീക്ഷണം നിങ്ങൾ ഒരു അടഞ്ഞ പാതയിൽകൂടി ആണ് സഞ്ചരിക്കുന്നതെങ്കിൽ ഒരു പോയിന്റിൽ നിന്ന് ആരംഭിച് അതിൽ തന്നെ തിരികെയെത്തുന്ന പാതയുടെ കാര്യത്തിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം പൂജ്യമായിരിക്കും പക്ഷെ ലൈൻ ഇന്റെഗ്രേലിനെ സംബന്ധിച്ചിടത്തോളം ആ ക്ലോസ്ഡ് ലൈൻ ഇന്റഗ്രൽ പൂജ്യമായിരിക്കും ഈ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഫീല്ഡിനെ കോൺസെർവേറ്റീവ് ഫീൽഡ് എന്ന് വിളിക്കുന്നു ഇതോടു കൂടി നാം നേരത്തെ വിട്ട പോയിന്റ് ചാർജുകളിലേക്ക് മടങ്ങി പോകാം ഒരു പോയിന്റ് ചാർജ് ഉണ്ട് ഒരു പോയിന്റ് ചാർജ് ക്യൂ ഇവിടെയുണ്ട് ഈ പോയിന്റ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് നാം യഥാർത്ഥത്തിൽ കണക്കാക്കിയിട്ടില്ലനാം ഒരു രേഖ ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് കണക്കാക്കിയിട്ടുണ്ട് പക്ഷെ പോയിന്റ് ചാർജിന്റേത് കണക്കാക്കിയിട്ടില്ല പക്ഷെ പോയിന്റ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് എങ്ങിനെ കണക്കാക്കണമെന്ന് നമുക്കറിയാം എന്തെന്നാൽ ഞാൻ ഇവിടെ ഒരു ടെസ്റ്റ് ചാർജ് വയ്ക്കുകയാണെങ്കിൽ ഇതാണ് എന്റെ ടെസ്റ്റ് ചാർജ് ഈ ചാർജിന്റെ ഫീൽഡാണ് ഞാൻ കണക്കാക്കുന്നത് ഈ ടെസ്റ്റ് ചാർജിൻമേലുള്ള ബലം ഇതിനെ ക്യൂ എന്നും കൂടാതെ ഇതിനെ നമുക്ക് ചെറിയ ക്യൂ എന്ന് വിളിക്കാം ക്യൂ ക്യൂ ഭാഗം നാലു പൈ എപ്സിലോൺ 0 ആയിരിക്കും ചാർജ് വായുവിൽ അല്ലെങ്കിൽ തുറസ്സായ സ്ഥലത്തു വച്ചിരിക്കുന്നു ആർ സ്ക്വയർഡ് നീളം അല്ലെങ്കിൽ സോഴ്സ് ലെ ചാര്ജും ടെസ്റ്റ് ചാര്ജും തമ്മിലുള്ള ദൂരം കൂടാതെ ഇതിന്റെ ദിശ ഈ രണ്ടു ചാർജുകളും തമ്മിൽ യോജിപ്പിക്കുന്ന രേഖയിലായിരിക്കും ചാർജ് ക്യൂ വും ചാർജ് ചെറിയ ക്യൂ വും ഇവിടെയാണ് ചാർജ് Q അപ്പോൾ ഇതാണ് രണ്ടു ചാർജുകളെയും ബന്ധിപ്പിക്കുന്ന രേഖയുടെ ദിശയിൽ പോകുന്ന ഫോഴ്സ് ഇപ്പോൾ ഇത് കൂളംബ് നിയമത്തിൽ നിന്നാണ് കൂളംബ് നിയമപ്രകാരം ഫോഴ്സ് പെർ ടെസ്റ്റ് ചാർജ് എന്നത് രണ്ടു വശത്തേയും Q കൊണ്ട് ഹരിച്ചാൽ ലഭിക്കും നാം നേരത്തെ എങ്ങിനെയാണ് Q ചെറിയ Q വലുതായിരിക്കണം എന്ന് തുടങ്ങി പറഞ്ഞതെല്ലാം ഓർത്താൽ അവയെല്ലാം കണ്ടു പിടിക്കാം നിങ്ങൾ ശൂന്യതയിലുള്ള ഏതെങ്കിലും പോയിന്റിലെ ഒരു ഇലക്ട്രിക് ഫീൽഡ് പോയിന്റ് ചാർജ് ക്യൂ ഭാഗം നാലു പൈ എപ്സിലോൺ 0 ആകയാൽ നമുക്ക് r r ന്റെ വെക്ടർ നോട്ടേഷനിലേക്ക് തിരിച്ചു പോകാം r ഉം r വെക്റ്ററും അപ്പോൾ നമുക്ക് ആർ മൈനസ് ആർ പ്രൈം ലഭിക്കും നമുക്ക് ഇവിടെ നോക്കേണ്ട r ദിശ എന്താണ് അല്ലെങ്കിൽ ഈ r ദിശ ഇത് സിലിണ്ടറിക്കൽ r ദിശക്ക് തുല്യമാണോ യഥാർത്ഥത്തിൽ ഗോളാകൃതിയിലുള്ള ചാർജുകൾക്ക് അങ്ങനെയല്ല എന്ന് നിങ്ങൾക്കറിയാം നമുക്ക് സ്ഫറിക്കൽ കോ ഓർഡിനേറ്റ് സിസ്റ്റം എന്ന് വിളിക്കപ്പെടുന്ന ഒരു വ്യത്യസ്തമായ കോ ഓർഡിനേറ്റ് സിസ്റ്റം ഉണ്ട് ഇത് കാർറ്റീഷ്യൻ അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ കോ ഓർഡിനേറ്റ് സിസ്റ്റങ്ങളേക്കാളും ലളിതമാണ് അപ്പൊൾ ഈ പോയിന്റ് ചാർജ് ഇലക്ട്രിക് ഫീൽഡിലുള്ള നാം ഇവിടെ എഴുതിയ ഈ r യഥാർത്ഥത്തിൽ സ്ഫറിക്കൽ കോ ഓർഡിനേറ്റ് സിസ്റ്റത്തിന്റെ റേഡിയസ് ദിശയിലാണ് ഇത് ഒരു പക്ഷെ ആശയക്കുഴപ്പമുണ്ടാക്കുന്നത് ആയിരിക്കാം എന്തെന്നാൽ നാം വിവിധ കോ ഓർഡിനേറ്റ് സിസ്റ്റങ്ങൾക്ക് ഒരേ അക്ഷരങ്ങളാണ് ഉപയോഗിക്കുന്നത് പക്ഷെ ഇതാണ് ഈ പ്രത്യേക കോഴ്സിന്റെ രീതി അതിനാൽ പരിഭ്രാന്തരാകേണ്ട കാര്യമില്ല ഈ വ്യത്യസ്തമായ നോട്ടേഷനുകൾ എന്തെന്ന് മനസ്സിലാക്കാൻ അൽപ്പ സമയം ചിലവഴിച്ചാൽ നിങ്ങൾക്കത് എളുപ്പത്തിൽ പിന്തുടരാം